മോഡൽ അസ്സെസ്സ്മെന്റ് റിഗ്രഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇൻഡിപെൻഡന്റ് വേരിയബിളായ x ഡിപെൻഡന്റ് വേരിയബിളായ y എന്നീ രണ്ട് വേരിയബിളുകൾക്കിടയിൽ ഒരു ലീനിയർ മോഡൽ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് മുൻ ലെക്ച്ചറിൽ നമ്മൾ കണ്ടു ഫിറ്റ് ചെയ്ത മോഡൽ യഥാർത്ഥത്തിൽ ന്യായമായും നല്ല ഒരു മോഡലാണോ അല്ലയോ എന്ന് ഈ ലെക്ച്ചറിൽ നമ്മൾ വിലയിരുത്താൻ പോകുന്നു ഈ വിലയിരുത്തൽ നടത്താൻ നിരവധി മാർഗങ്ങളുണ്ട് അവയിൽ ചിലത് നമ്മൾ പരിശോധിക്കും നമ്മൾ ഒരു മോഡലിന് അനുയോജ്യമാകുമ്പോൾ ചോദിക്കേണ്ട ഉപയോഗപ്രദമായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഘടിപ്പിച്ച ലീനിയർ മോഡൽ പര്യാപ്തമാണോ അല്ലയോ നല്ലതാണോ അല്ലയോ എന്നതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം അത് നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോൺ ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം അതിനാൽ മോഡൽ നല്ലതാണോ അല്ലയോ എന്നതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങൾ ഒരു മോഡൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ലീനിയർ മോഡലിന്റെ ഏത് ഗുണകങ്ങളാണ് പ്രസക്തമെന്ന് കണ്ടെത്തണം ഉദാഹരണത്തിന് സിംഗിൾ വേരിയബിൾ കേസിൽ നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ കണ്ടു β0 എന്ന ഇന്റർസെപ്റ്റ് പദവും β1 എന്ന സ്ലോപ്പ് പദവും മാത്രമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന 2 പാരാമീറ്ററുകൾ നമ്മൾ ഇന്റർസെപ്റ്റ് ഫിറ്റ് ചെയ്യണമോ വേണ്ടയോ അത് 0 ആയി എടുക്കണമോ എന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു മൾട്ടിലീനിയർ റിഗ്രഷനിൽ നമുക്ക് നിരവധി ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ ഉള്ളപ്പോൾ ഏതൊക്കെ വേരിയബിളുകൾ പ്രാധാന്യമർഹിക്കുന്നു നമ്മൾ എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും ഉപയോഗിക്കണമോ അല്ലെങ്കിൽ അവയിൽ ചിലത് ഉപേക്ഷിക്കണമോ എന്ന് കണ്ടെത്തുന്നതും പ്രധാനമാണെന്ന് നമുക്ക് കാണാം അതിനാൽ ലീനിയർ മോഡലിന്റെ ഏത് ഗുണകങ്ങൾ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടെത്തുന്നതിനുള്ള ഈ പ്രത്യേക പരിശോധന ഏകീകൃത സാഹചര്യത്തിൽ മാത്രമല്ല മൾട്ടി ലീനിയർ റിഗ്രഷനിൽ കൂടുതൽ ഉപയോഗപ്രദമാണ് അവിടെ നമ്മൾ പ്രധാനപ്പെട്ട വേരിയബിളുകൾ തിരിച്ചറിയില്ല നമുക്ക് അനുയോജ്യമായ ലീനിയർ മോഡൽ സ്വീകാര്യമാണെന്ന് കരുതുക അപ്പോൾ നമുക്ക് ലീനിയർ മോഡലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ അളവുകളെ നശിപ്പിക്കുന്ന എററുകകളെക്കുറിച്ച് നമ്മൾ നിരവധി ഓപ്ഷനുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ അനുമാനങ്ങൾ ശരിക്കും സാധുവാണോ ഡിപെൻഡന്റ് വേരിയബിളിന്റെ അളവുകളെ തകരാറിലാക്കുന്ന എററുകകളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ചില അനുമാനങ്ങൾ എന്തൊക്കെയാണ് എററുകൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ അനുമാനത്തിന് മാത്രമേ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതിനെ ന്യായീകരിക്കാൻ കഴിയൂ വ്യത്യസ്ത സാമ്പിളുകളിലെ എററുകൾക്ക് ഒരേ വ്യത്യാസമുണ്ടെന്നും നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ ഇതിനെ ഹോമോസെഡാസ്റ്റിസിറ്റി അനുമാനം എന്ന് വിളിക്കുന്നു അതിനാൽ വ്യത്യസ്ത സാമ്പിളുകളിലെ എററുകൾക്കും ഒരേ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു പൊതുവേ ഈ രണ്ട് പ്രസ്താവനകളും സമാന വ്യതിയാനങ്ങളോടെ വിതരണം ചെയ്യുന്ന എററുകകളെക്കുറിച്ചുള്ള അനുമാനങ്ങളെ ഒതുക്കമുള്ള രീതിയിൽ പ്രതിനിധീകരിക്കാൻ കഴിയും എറർ കറപ്റ്റിംഗ് മെഷർമെൻറ് error corrupting measurement εi മീൻ 0 യും വേരിയൻസ് σ2 ഉം ആയി നോർമലി ഡിസ്ട്രിബിയൂട്ടഡ് ആണ് σ2 ഒന്നുതന്നെയാണെന്നും i യെ ആശ്രയിക്കുന്നില്ലെന്നും ശ്രദ്ധിക്കുക അതായത് i 1 മുതൽ n വരെയുള്ള എല്ലാ സാമ്പിളുകൾക്കും ഇത് ഒരുപോലെയാണ് ഇപ്പോൾ നമ്മൾ നടത്തിയ എല്ലാ അളവുകളും ന്യായമായും നല്ലതാണെന്നും മോശം ഡാറ്റാ പോയിന്റുകളോ ഡാറ്റയിൽ നമ്മൾ ഔട്ട്ലൈയറുകൾ എന്ന് വിളിക്കുന്നതോ ഇല്ലെന്നും നമ്മൾ അനുമാനിക്കുന്നു നമ്മൾ ഒരു സാമ്പിൾ ശരാശരി കണക്കാക്കുമ്പോൾ പോലും ഡാറ്റ ശരാശരിയെ വളരെ മോശമായി കണക്കാക്കാൻ ഇടയാക്കുമെന്ന് നമ്മൾ കണ്ടു അതിനാൽ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിലും നമുക്ക് ഒരു മോശം ഡാറ്റാ പോയിന്റുണ്ടെങ്കിൽ അത് ഗുണകങ്ങളുടെ വളരെ മോശമായ വിലയിരുത്തലിന് കാരണമാകും അതിനാൽ എററുകളുടെ ഡാറ്റാ സെറ്റിൽ നിന്ന് അത്തരം മോശം ഡാറ്റ നീക്കംചെയ്യാനും ശേഷിക്കുന്ന അളവുകൾ ഉപയോഗിച്ച് മാത്രം ഒരു ലീനിയർ മോഡലിന് അനുയോജ്യമാകാനും അത് മെച്ചപ്പെടുത്താനും നമ്മൾ ആഗ്രഹിക്കുന്നു അത് ലീനിയർ മോഡലിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവ ഈ അനുമാനങ്ങൾ ന്യായമായാലും ഇല്ലെങ്കിലും എററുകളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് മോശം ഡാറ്റ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാം അതിനാൽ ഈ പ്രഭാഷണത്തിലെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കും അത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലീനിയർ മോഡൽ നല്ലതാണോ എന്നും ലീനിയർ മോഡലിന്റെ ഗുണകങ്ങൾ പ്രാധാന്യമുള്ളതാണോ എന്ന് എങ്ങനെ തീരുമാനിക്കാം എന്നും വിലയിരുത്തുക അതിനാൽ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ എസ്റ്റിമേറ്റുകളുടെ ചില പ്രോപ്പർട്ടികൾ നമുക്ക് ഉരുത്തിരിഞ്ഞുവരേണ്ടതുണ്ട് ഓർക്കുക നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലീനിയർ മോഡലിന്റെ ഗുണകങ്ങൾ അത് ഇന്റർസെപ്റ്റ് പദമായ β0 ഉം സ്ലോപ്പ് പദമായ β1 ഉം ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡാറ്റയുടെ സാമ്പിളിൽ നിന്നുള്ള ഡാറ്റയിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത് ഈ ചിഹ്നങ്ങൾക്കെല്ലാം മുകളിൽ ഈ ക്യാപ്പ് ഇടുന്നതിലൂടെ ഇവ എസ്റ്റിമേറ്റുകളാണെന്നും യഥാർത്ഥ മൂല്യങ്ങളല്ലെന്നും നമ്മൾ സൂചിപ്പിച്ചു അതായത് ഇത് ഒരു എസ്റ്റിമേറ്റ് ആണ് β̂₀ എന്നത് യഥാർത്ഥ β0 ന്റെ കണക്കാണ് β̂1 എന്നത് യഥാർത്ഥ β1 ന്റെ കണക്കാണ് എന്നിരുന്നാലും β̂₀ ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ β0 ആയിരിക്കുമെന്ന് എററുകളെക്കുറിച്ച് നമ്മൾ നടത്തിയ അനുമാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് തെളിയിക്കാനാകും എന്താണ് ഇതിനർത്ഥം നമ്മൾ ഈ പരീക്ഷണം ആവർത്തിക്കുകയാണെങ്കിൽ n അളവുകളുടെ മറ്റൊരു സാമ്പിൾ ശേഖരിച്ച് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് β0 ന്റെ മറ്റൊരു കണക്ക് ലഭിക്കും നമ്മൾ ഈ പരീക്ഷണം പല പ്രാവശ്യം നടത്തുകയും β̂₀ ന്റെ നിരവധി എസ്റ്റിമേറ്റുകൾ ലഭിക്കുകയും ചെയ്യട്ടെ അവയുടെ ശരാശരി മൂല്യം യഥാർത്ഥ മൂല്യത്തിലേക്ക് നയിക്കും അതാണ് ഈ പദപ്രയോഗം അർത്ഥമാക്കുന്നത് ഈ പരീക്ഷണം നമ്മൾ ഉരുത്തിരിഞ്ഞ കണക്കുകളുടെ ശരാശരിയുടെ പലമടങ്ങ് ആവർത്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ശരിയായതിന്റെ മികച്ച പ്രതിനിധാനമായിരിക്കും അതുപോലെ β̂1 ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ യഥാർത്ഥ മൂല്യമായ β1 ന് തുല്യമാണെന്ന് നമുക്ക് കാണിക്കാം β0 ഉം β1 ഉം അജ്ഞാതമായ മൂല്യങ്ങളാണെന്ന കാര്യം ശ്രദ്ധിക്കുക β̂1 ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ യഥാർത്ഥ മൂല്യവും β̂₀ ന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ യഥാർത്ഥ മൂല്യവും ആയിരിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഈ എസ്റ്റിമേറ്റുകളെ നിഷ്പക്ഷമെന്ന് വിളിക്കുക β̂₀ അല്ലെങ്കിൽ β̂1 ന്റെ എസ്റ്റിമേറ്റിൽ പക്ഷപാതമില്ല എസ്റ്റിമേറ്റുകളെക്കുറിച്ച് നമുക്ക് ലഭിക്കേണ്ട രണ്ടാമത്തെ പ്രധാന സവിശേഷത എസ്റ്റിമേറ്റുകളുടെ വ്യതിയാനമാണ് നമ്മൾ ഉരുത്തിരിഞ്ഞ സാമ്പിളിനെ ആശ്രയിച്ച് β̂₀ ന്റെ വ്യത്യസ്ത വ്യത്യസ്ത കണക്കുകൾ ലഭിക്കുന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഈ പരീക്ഷണം ആവർത്തിക്കുകയാണെങ്കിൽ β̂₀ β̂1 എന്നിവയുടെ ഈ എസ്റ്റിമേറ്റുകളുടെ വ്യാപനം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു β̂1 ന്റെ വ്യതിയാനം σ2 Sxx ആയിരിക്കുമെന്ന് നമ്മൾ നടത്തിയ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് വീണ്ടും കാണിക്കാം Sxx എന്നത് x ന്റെ വേരിയൻസിനെ പ്രതിനിധീകരിക്കുന്നു അതേസമയം σ2 എന്നത് ഡിപെൻഡന്റ് വേരിയബിളായ y യെ കേടുവരുത്തുന്ന പിശകിന്റെ വ്യതിയാനത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ σ2 എന്നത് എറർ വേരിയൻസ് ആണ് Sxx എന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വേരിയൻസ് ആണ് അതിനാൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഈ അനുപാതം β̂1 ന്റെ വേരിയൻസ്ന് തുല്യമായിരിക്കും അതുപോലെ β̂₀ ന്റെ വേരിയൻസ് എന്നത് എറർ വേരിയൻസ് σ2 നെ ഈ അനുപാതം കൊണ്ട് ഗുണിച്ചതാണെന്ന് കാണിക്കാം ന്യൂമറേറ്റർ എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളുടെയും ആകെ സ്ക്വയർ മൂല്യങ്ങൾ അതേസമയം ഡിനോമിനേറ്റർ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വ്യതിയാനത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിൽ Sxx ഡാറ്റയിൽ നിന്ന് കണക്കാക്കാം ഡാറ്റയിൽ നിന്ന് σ കണക്കാക്കാം എന്നാൽ പിശകിന്റെ വ്യതിയാനത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം അത് ഡിപെൻഡന്റ് വേരിയബിളിനെ കേടാക്കുന്നു അത് ഡിപെൻഡന്റ് വേരിയബിളിനെ അളക്കാൻ ഉപയോഗിച്ച ഉപകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഉപകരണത്തിന്റെ കൃത്യതയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ അതിൽ നിന്ന് σ2 എടുക്കാം എന്നാൽ മിക്ക കേസുകളിലും ഡാറ്റാ വിശകലന കേസുകളിൽ ഡിപെൻഡന്റ് വേരിയബിൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ കൃത്യത എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരിക്കാം അതിനാൽ σ2 ഡാറ്റയിൽ നിന്ന് എങ്ങനെയെങ്കിലും കണക്കാക്കേണ്ടതുണ്ട് ഇവിടെ വിവരിച്ചിരിക്കുന്ന ഈ അളവ് ഉപയോഗിച്ച് നമുക്ക് σ2 ന്റെ വളരെ നല്ല എസ്റ്റിമേറ്റ് ലഭിക്കുമെന്ന് കാണിക്കാൻ കഴിയും ഇത് രേഖീയ സമവാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന അളന്ന മൂല്യമായ y യും കണക്കാക്കിയ മൂല്യം ŷi യും തമ്മിലുള്ള വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല നമ്മൾ ഒരു ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ xi യ്ക്കും ഓരോ സാമ്പിളിനും ŷi യുടെ എസ്റ്റിമേറ്റ് എന്താണെന്ന് ലീനിയർ മോഡലിൽ നിന്ന് നമുക്ക് പ്രവചിക്കാം അപ്പോൾ നമുക്ക് ഡിപെൻഡന്റ് വേരിയബിളിന്റെ അളവും പ്രവചിച്ച മൂല്യവും തമ്മിലുള്ള വ്യത്യാസം ഓരോന്നും സ്ക്വയർ ചെയ്തു കിട്ടുന്നതിന്റെ ആകെത്തുകയെ n 2 കൊണ്ട് ഹരിച്ചാൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ പ്രവചന മൂല്യം എടുക്കാം അത് ഡിപെൻഡന്റ് വേരിയബിളിലെ എറർ ആണ് ഇപ്പോൾ എന്തിനാണ് നമ്മൾ n അല്ലെങ്കിൽ n 1 ന് പകരം n 2 കൊണ്ട് ഹരിക്കുന്നത് വളരെ ലളിതമാണ് ലീനിയർ മോഡൽ ഉപയോഗിച്ചാണ് ŷi കണക്കാക്കിയത് ഇതിന് β0 β1 എന്നീ 2 പാരാമീറ്ററുകൾ ഉണ്ടായിരുന്നു അതായത് 2 ഡാറ്റാ പോയിന്റുകൾ β0 β1 എന്നിവ കണക്കാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു അതിനാൽ ഈ σ സ്ക്വയർ കണക്കാക്കാൻ ശേഷിക്കുന്ന n 2 സാമ്പിളുകൾ മാത്രമേ ലഭ്യമാകൂ നിങ്ങൾക്ക് രണ്ട് സാമ്പിളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അപ്പോൾ നിങ്ങളുടെ ന്യൂമറേറ്റർ കൃത്യമായി 0 ആയിരിക്കും രണ്ടിൽ കൂടുതൽ സാമ്പിളുകളാണ് ഇവിടെ നിങ്ങളുടെ വേരിയബിളിറ്റി ആ വേരിയബിളിറ്റി ഡിപെൻഡന്റ് വേരിയബിളിലെ എറർ മൂലമാണ് ഉണ്ടാകുന്നത് β0 β1 എന്നീ പാരാമീറ്ററുകൾ കണക്കാക്കാൻ രണ്ട് ഡാറ്റ പോയിന്റുകൾ ഉപയോഗിച്ചതിനാൽ നിങ്ങൾ n 2 കൊണ്ട് ഹരിക്കുന്നതിനുള്ള ഒരു കാരണമാണിത് ഇപ്പോൾ ഈ പ്രത്യേക ന്യൂമറേറ്റർ പദത്തെ സം സ്ക്വയർ എററുകൾ അല്ലെങ്കിൽ SSE എന്നും വിളിക്കുന്നു അങ്ങനെ σ̂ 2 ഒന്നുമല്ല SSE യെ n 2 കൊണ്ട് ഹരിക്കുന്നു നിങ്ങൾ മോഡൽ ഫിറ്റ് ചെയ്തതിന്ന് ശേഷമുള്ള ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ഈ മൂല്യം കണക്കാക്കാനും SSE കണക്കാക്കാനും σ̂2 ന് ഒരു എസ്റ്റിമേറ്റ് നേടാനും കഴിയും അതിനാൽ ഡിപെൻഡന്റ് വേരിയബിൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ കൃത്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോട് പറയേണ്ടതില്ല നിങ്ങൾക്ക് അത് ഡാറ്റയിൽ നിന്ന് തന്നെ ലഭിക്കും അവസാനമായി നമുക്ക് β̂₀ β̂1 ന്റെ ഫസ്റ്റ് മൊമെന്റ് പ്രോപ്പർട്ടികൾ മാത്രമല്ല β̂0 β̂1 ന്റെ വേരിയൻസ് ആയ സെക്കൻഡ് മൊമെന്റ് പ്രോപ്പർട്ടികളും ലഭിച്ചു നമുക്ക് പരാമീറ്ററുകളുടെ ഡിസ്ട്രിബ്യുഷനും നേടാനാകും പ്രത്യേകിച്ച് β̂1 ന്റേത് നോർമൽ ഡിസ്ട്രിബൂഷൻ ആണെന്ന് കാണിക്കാം തീർച്ചയായും എക്സ്പെക്ടഡ് വാല്യൂ β1 ആയതിനാൽ ഇത് നോർമൽ ഡിസ്ട്രിബൂഷനാണ് പിന്തുടരുന്നത് β1 ന്റെ യഥാർത്ഥ അജ്ഞാത മൂല്യം മീൻ ആണ് വേരിയൻസ് σ യുമാണ് നിങ്ങൾ ഇവിടെ σ̂2 പകരം വയ്ക്കുകയാണെങ്കിൽ ഇത് σ2 നെ S xx കൊണ്ട് ഹരിക്കുകയാണെന്ന് കാണിക്കാം σ2Sxx എന്നത് β̂1 ന്റെ വേരിയൻസാണ് ഇപ്പോൾ നിങ്ങൾക്ക് σ2 അറിയില്ലെങ്കിൽ ഈ σ2 നെ σ̂2 SSE ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ പരാമീറ്ററുകളുടെ ഡിസ്ട്രിബൂഷൻ നിങ്ങൾ ഉരുത്തിരിഞ്ഞുകഴിഞ്ഞാൽ 0 ൽ നിന്ന് കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് ഹൈപോതെസിസ് ടെസ്റ്റിംഗ് നടത്താം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ വേരിയൻസ് എന്നിവയുടെ ഡിസ്ട്രിബൂഷൻ സവിശേഷതയെ അടിസ്ഥാനമാക്കി ഈ എസ്റ്റിമേറ്റുകളുടെ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വിളിക്കുന്നതും നമുക്ക് കണ്ടെത്താനാകും ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോൺഫിഡൻസ് ഇന്റെർവെല്ലുകൾ വികസിപ്പിക്കുക എന്നതാണ് അജ്ഞാത മൂല്യങ്ങൾ 95 ശതമാനം കോൺഫിഡൻസോടെയോ 90 ശതമാനം കോൺഫിഡൻസോടെയോ ആയിരിക്കാൻ സാധ്യതയുള്ള ഇന്റർവെൽ എന്താണെന്ന് കോൺഫിഡൻസ് ഇന്റെർവെല്ലുകൾ ലളിതമായി പറയുന്നു നിങ്ങൾക്ക് CI എന്നും അറിയപ്പെടുന്ന 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ വേണമെങ്കിൽ അത് രണ്ട് വശങ്ങളുള്ളതാണ് കാരണം അത് ഈ കണക്കാക്കിയ മൂല്യത്തിന്റെ ഇടതുവശത്തോ കണക്കാക്കിയ മൂല്യത്തിന്റെ വലതുവശത്തോ ആകാം അതിനാൽ β1 നുള്ള 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ നേടുന്നു ഇത് അജ്ഞാത വ്യതിയാനങ്ങളോടെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് അതിനാൽ ഈ പ്രത്യേക ശ്രേണിയിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞുവരാൻ കഴിയും ഇത് β1 ന്റെ കണക്കാക്കിയ മൂല്യമാണ് ഡാറ്റയിൽ നിന്ന് കണക്കാക്കിയ β̂1 ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ β̂1 അല്ലെങ്കിൽ 2 ഇത് നോർമലിന് സാമ്യമുള്ളതാണെന്ന് ശ്രദ്ധിക്കുക അതായത് യഥാർത്ഥ മൂല്യം എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ 2 മടങ്ങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഇടയിലായിരിക്കുമെന്ന് പറയുന്നു 2 ന് പകരം 2 18 ഉള്ളതിന്റെ കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ വാല്യു നേടുന്നില്ല പക്ഷേ t ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് കാരണം σ2 ഡാറ്റയിൽ നിന്ന് കണക്കാക്കിയതും പ്രിയോറി അറിയാത്തതുമാണ് അതിനാൽ ഡിസ്ട്രിബ്യൂഷൻ ചെറുതായി മാറുന്നു ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനല്ല t ഡിസ്ട്രിബ്യൂഷനാണ് അതാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കുത്തനെയുള്ള 2 18 ഒന്നുമല്ല എന്നാൽ ക്രിട്ടിക്കൽ വാല്യു 2 5 ശതമാനം ക്രിട്ടിക്കൽ വാല്യു 12 ഡിഗ്രി ഫ്രീഡമുള്ള ഉയർന്ന ക്രിട്ടിക്കൽ വാല്യു എന്തുകൊണ്ടാണ് 12 ഡിഗ്രി ഫ്രീഡം കാരണം ഈ പ്രത്യേക ഉദാഹരണത്തിൽ നമ്മൾക്ക് പതിനാല് പോയിന്റുകൾ ഉണ്ടായിരുന്നു രണ്ട് പാരാമീറ്ററുകൾ കണക്കാക്കാൻ നമ്മൾ രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ചു അതിനാൽ n 2 എന്നത് 12 പ്രതിനിധീകരിക്കുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് പൊതുവേ ഡാറ്റാ പോയിന്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ച് ഈ മൂല്യം 2 അതിനാൽ ആ മാറ്റങ്ങൾ നിങ്ങൾ മുകളിലും താഴെയുമുള്ള ക്രിട്ടിക്കൽ വാല്യു തിരഞ്ഞെടുക്കേണ്ട t ഡിസ്ട്രിബ്യൂഷന്റെ ഫ്രീഡത്തിന്റെ അളവാണ് അതിനാൽ താഴ്ന്ന ക്രിട്ടിക്കൽ വാല്യു 2 18 ഉയർന്ന ക്രിട്ടിക്കൽ വാല്യു 2 അതിനാൽ മൊത്തത്തിൽ 5 ശതമാനമാണ് 90 ഇല്ല ഈ കോൺഫിഡൻസ് ഇന്റർവെൽ β1 നുള്ള 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെല്ലിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നമ്മൾ പ്രസ്താവിക്കാൻ പോകുന്നത് അജ്ഞാത β1 ഈ ഇന്റർവെല്ലിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ പറയുന്നത് β̂1 ഡാറ്റയിൽ നിന്ന് കണക്കാക്കാം sβ̂1 നമുക്ക് കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇന്റർവെൽ നിർമ്മിക്കാൻ കഴിയും അതുപോലെ β0 ന്റെ 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ അതിന്റെ വേരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് നിർമ്മിക്കാം നമ്മൾ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് β̂₀ അല്ലെങ്കിൽ ഡാറ്റയിൽ നിന്ന് കണക്കാക്കിയ β̂₀ ന്റെ 2 18 മടങ്ങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിനെയാണ് നമ്മൾ sβ̂0 എന്ന് വിളിക്കുന്നത് ഓർക്കുക s β̂₀ എന്നത് σ2 ആണ് ഇത് σxi2 ന്റെ ഈ വർഗ്ഗമൂലത്താൽ ഗുണിച്ച ഡാറ്റയിൽ നിന്ന് n മടങ്ങ് Sxx കൊണ്ട് ഹരിച്ചാൽ കണക്കാക്കുന്നു ഇത് ഒന്നുമല്ല എന്നാൽ നമ്മൾ നേരത്തെ നേടിയതിന്റെ വർഗ്ഗമൂല്യം σ2 ഉപയോഗിച്ച് കണക്കാക്കിയ അളവ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഈ രണ്ട് പദങ്ങളും sβ̂1 sβ̂0 എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ 95 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ നിർമ്മിച്ചുകഴിഞ്ഞാൽ β0 അജ്ഞാതമാണോ β0 0 ആണോ അല്ലെങ്കിൽ β1 അജ്ഞാതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതിനാൽ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സിദ്ധാന്ത പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം x നും y നും ഇടയിൽ ഒരു ലീനിയർ ഡിപൻഡൻസി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതി നമ്മൾ ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് β̂1 ന്റെ ഒരു എസ്റ്റിമേറ്റ് ലഭിച്ചു കൂടാതെ നമ്മൾ ഒരു ഇന്റർസെപ്റ്റ് പദവും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർസെപ്റ്റ് പദം പ്രാധാന്യമുള്ളതാണോ എന്ന് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ചേക്കാം ഒരുപക്ഷേ രേഖ 00 ഉത്ഭവത്തിലൂടെ കടന്നുപോകണം x1 നെ കാര്യമായി ആശ്രയിക്കാത്ത y വേരിയബിൾ ആയിരിക്കാം അതായത് β̂1 എന്നത് ഏകദേശം 0 ന് തുല്യമാണ് അജ്ഞാത β1 0 ന് തുല്യമാണ് എന്നിരുന്നാലും നമ്മൾക്ക് ചില കണക്കുകൾ ലഭിച്ചിട്ടുണ്ട് β̂1 β̂1 എന്നതിനായുള്ള എസ്റ്റിമേറ്റ് പൂജ്യമല്ല അതിനാൽ നമ്മൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് β1 0 ആണ് കൂടാതെ β1 0 അല്ല എന്ന ബദൽ ആണ് β1 0 ആണെങ്കിൽ x എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഡിപെൻഡന്റ് വേരിയബിളിൽ യാതൊരു സ്വാധീനവുമില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ മറുവശത്ത് എങ്കിൽ നിങ്ങൾ ഈ നൾ ഹൈപോതെസിസ് നിരസിക്കുന്നു ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു അതിനാൽ ഈ പ്രത്യേക ഹൈപോതെസിസ് ടെസ്റ്റിംഗിനെ പുനർവ്യാഖ്യാനം ചെയ്യാവുന്നതാണ് β1 0 എന്നാണത് സൂചിപ്പിക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്നത് yi ഒരു സ്ഥിരാങ്കത്തിൽ മാത്രമാണ് എന്നാൽ നൾ ഹൈപോതെസിസ് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രേഖീയമാണ് ഫിറ്റ് ചെയ്യുന്നത് β0 ഉം β1 ഉം ഉള്ള മോഡൽ അതിനാൽ നൾ ഹൈപ്പോതെസിസ് ഒരു മോഡലിന്റെ t യെ പ്രതിനിധീകരിക്കുന്നു അതിൽ സ്ഥിരാങ്കം മാത്രം ഉൾപ്പെടുന്നു അതേസമയം ഹൈപോതെസിസ്ന്റെ നിരസിക്കൽ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപോതെസിസ് സൂചിപ്പിക്കുന്നത് y x യുമായി ബന്ധപ്പെട്ട ഒരു രേഖീയ മാതൃക ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് അതിനാൽ ഈ രണ്ട് മോഡലുകൾക്കിടയിൽ റെഡ്യൂസ്ഡ് മോഡൽ സ്വീകാര്യമാണോ അതോ പൂർണ്ണമായ മോഡൽ സ്വീകരിക്കണോ എന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു റെഡ്യൂസ്ഡ് മോഡൽ നിരസിക്കപ്പെടണം ഈ സിദ്ധാന്തം β1 0 വേഴ്സസ് β1 ≠ 0 പരിശോധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ് ഓർക്കുക β1 പോസിറ്റീവോ നെഗറ്റീവോ ആകാം അതിനാലാണ് നമ്മൾ രണ്ട് വശങ്ങളുള്ള പരിശോധന നടത്തുന്നത് അതിനാൽ β̂1 β1 നുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ 0 ഉൾപ്പെടുത്തിയാൽ 2 വഴികളിലൂടെ നമുക്ക് നൾ ഹൈപോതെസിസ് നിരസിക്കാൻ കഴിയും അതിനാൽ നമ്മൾ β1 നുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ നിർമ്മിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ പദം β̂1 2 18 നെഗറ്റീവ് ആയിരിക്കാം ഇത് പോസിറ്റീവ് ആയിരിക്കാം ഈ സാഹചര്യത്തിൽ ഇന്റെർവെല്ലിൽ 0 ഉൾപ്പെടുന്നു തുടർന്ന് നമ്മൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം ആ β1 അപ്രധാനവും യഥാർത്ഥത്തിൽ ശരിയുമാണ് β1 0 മറുവശത്ത് രണ്ടും ആണെങ്കിൽ ഈ അളവുകൾ 0 യുടെ ഇടതുവശത്തോ പൂർണ്ണമായും നെഗറ്റീവ് ആണെങ്കിൽ 0 യുടെ വലത്തോട്ടോ ആണെങ്കിൽ ഈ രണ്ട് അളവുകളും പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇന്റെർവെല്ലിൽ 0 അടങ്ങിയിരിക്കില്ല തുടർന്ന് നമുക്ക് നിഗമനം β10 നൾ ഹൈപോതെസിസ് നിരസിക്കാൻ കഴിയും 0 ആണ് അതായത് β1 പ്രാധാന്യമുള്ളതാണ് അതിനാൽ കോൺഫിഡൻസ് ഇന്റെർവെല്ലിൽ നിന്ന് തന്നെ നിരസിക്കുകയോ നൾ ഹൈപോതെസിസ് ഉണ്ടാക്കുകയോ ചെയ്യാം അതിനാൽ β0 0 ആണോ അല്ലയോ എന്ന് പോലും പരിശോധിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള വിശകലനം വിപുലീകരിക്കാം അതിനാൽ β0 നുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ ഈ പ്രത്യേക ഇന്റർവെൽൽ 0 ഉൾപ്പെടുന്നുവെങ്കിൽ ഇന്റർസെപ്റ്റ് പദം നിസ്സാരമാണെന്ന് നമ്മൾ പറയും അല്ലാത്തപക്ഷം ഇന്റർസെപ്റ്റ് പദം നിസ്സാരമാണെന്നും മോഡലിൽ നിലനിർത്തണമെന്നും നമ്മൾ പറയും ഒരു അന്തിമ ഉദാഹരണം ചെയ്യുമ്പോൾ നമുക്ക് ഇത് കാണാനാകും ഈ പരിശോധന നടത്താൻ മറ്റ് വഴികളുണ്ട് നമ്മൾ അത് തുടരും കാരണം നമ്മൾ മൾട്ടിലീനിയർ റിഗ്രഷനിലേക്ക് വരുമ്പോൾ അത് വളരെ ഉപയോഗപ്രദമാണ് യൂണിവേറിയേറ്റ് റിഗ്രഷനിൽ നമ്മൾക്ക് ഈ രണ്ട് പാരാമീറ്ററുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ മൾട്ടിലീനിയർ റിഗ്രഷനിൽ നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിനും അനുയോജ്യമായ ഒന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ നോക്കുന്ന നിരവധി അനുമാന പരിശോധനകൾ ഉണ്ടാകും അതിനാൽ β1 0 അല്ലെങ്കിൽ β1 0 പരീക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ് വിപുലീകരിക്കും എഫ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് ഉപയോഗിച്ച് നമ്മൾ കടന്നുപോകും അതിനാൽ റെഡ്യൂസ്ഡ് മോഡൽ പര്യാപ്തമാണോ അതോ ഫുൾ മോഡൽ അംഗീകരിക്കണോ എന്ന് പരിശോധിക്കുന്നതിന് എഫ് ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് സം സ്ക്വയർഡ് ക്വാണ്ടിറ്റികൾക്കായി നമ്മൾ ചില നിർവചനങ്ങൾ ഉപയോഗിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരു സെറ്റ് ഡാറ്റ ഉണ്ടെന്ന് പറയട്ടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ യൂണിറ്റുകളുടെ എണ്ണവും യൂണിറ്റുകൾ നന്നാക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ വ്യത്യസ്ത വിൽപ്പനക്കാരൻ എടുത്ത സമയവും നമ്മളുടെ പക്കലുണ്ട് നമ്മൾക്ക് അത്തരം പതിനാല് ഡാറ്റാ പോയിന്റുകൾ ഉണ്ടായിരുന്നു പതിനാല് യഥാർത്ഥത്തിൽ ഡാറ്റ റിപ്പോർട്ട് ചെയ്ത സെയിൽസ്മാൻ ചുവന്ന പോയിന്റുകൾ യഥാർത്ഥത്തിൽ ഡാറ്റയെ പ്രതിനിധീകരിക്കുന്നു ഏറ്റവും മികച്ചത് ലീനിയർ ടി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാ ഡാറ്റാ പോയിന്റുകളും ഉപയോഗിച്ച് നീല വരയാൽ സൂചിപ്പിച്ച എന്തെങ്കിലും നമ്മൾക്ക് ലഭിച്ചു ഇപ്പോൾ സ്ഥിരമായ മോഡൽ നല്ലതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഈ പ്രത്യേക തിരശ്ചീന രേഖ യഥാർത്ഥത്തിൽ ഫിറ്റ് ചെയ്യുമായിരുന്നു y യെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മികച്ച t ആയിരിക്കും സ്ഥിരമായ മോഡലിന്റെ ഏറ്റവും മികച്ച എസ്റ്റിമേറ്റ് x ന്റെ എല്ലാ മൂല്യങ്ങൾക്കും y യുടെ ശരാശരിയാണ് y യുടെ മികച്ച പ്രവചനം yi യുടെ ശരാശരി മൂല്യമാണ് അതായത് x ന് പ്രസക്തിയില്ല β1 0 ആണ് അതിനാൽ y എന്നതിന്റെ ഏറ്റവും മികച്ച സ്ഥിരാങ്കമായ t ഈ ശരാശരി മൂല്യമാണ് അതിനാൽ β1 ചരിവ് അവഗണിക്കുമ്പോൾ ചുവന്ന വര മികച്ച t യെ പ്രതിനിധീകരിക്കുന്നു നമ്മൾ സ്ലോപ്പ് പരാമീറ്റർ β1 ഉൾപ്പെടുത്തുമ്പോൾ നീല വര ഡാറ്റയുടെ മികച്ച t യെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ നമുക്ക് നിശ്ചിത സം സ്ക്വയർ ഡീവിയേഷൻ നോക്കാം ഇത് സ്ഥിരാങ്കത്തിന്റെ ഏറ്റവും മികച്ച റെഡ് ലൈൻ ആയ y യും y̅ യും തമ്മിലുള്ള വ്യതിയാനമാണ് ഈ ദൂരം Yi y̅ ആണ് നമ്മൾ ചെയ്യാത്തതെല്ലാം n അല്ലെങ്കിൽ n 1 കൊണ്ട് ഹരിച്ചാൽ n കൊണ്ട് ഹരിക്കുന്നു നമുക്ക് y യുടെ വേരിയൻസ് ലഭിച്ചു എന്നാൽ ഇത് സ്ലോപ്പ് പാരാമീറ്റർ അവഗണിക്കുമ്പോൾ yi യിലെ സം സ്ക്വയർ എററുകകളെ പ്രതിനിധീകരിക്കുന്നു അതാണ് മറ്റൊരു രീതി ŷi yi യും തമ്മിലുള്ള ദൂരം ചരിവ് പാരാമീറ്ററുകൾക്ക് പ്രസക്തമായ ഈ നീല വര നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുക കൂടാതെ ഓരോ xi യ്ക്കും ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് അനുയോജ്യമായ ഈ xi yi എടുക്കാം ഈ ലീനിയർ മോഡൽ ഉപയോഗിച്ച് yi യുടെ പ്രവചിച്ച മൂല്യം കവല പോയിന്റായിരിക്കും ഈ ലംബ രേഖയെ നീല ഡോട്ട് പ്രതിനിധീകരിക്കുന്നു അതിനെ നമ്മൾ ŷi എന്ന് വിളിക്കുന്നു അതിനാൽ അളവും പ്രവചിച്ച മൂല്യവും തമ്മിലുള്ള ഈ ലംബ ദൂരത്തെ സം സ്ക്വയർ എററുകകളാണ് SSE yi ŷi2 എന്ന് വിളിക്കുന്നു t യിൽ ചരിവ് പാരാമീറ്ററുകൾ ഉൾപ്പെടുത്തിയാൽ ഇത് മൊത്തം പിശകാണ് അതിനാൽ ഈ രണ്ട് അളവുകൾ തമ്മിലുള്ള വ്യത്യാസം SS ടോട്ടൽ SS എറർ സം സ്ക്വയർ റെസിഷ്യൽ എന്ന് വിളിക്കപ്പെടുന്നതിന് തുല്യമായിരിക്കും അത് ഒന്നുമല്ല എന്നാൽ പ്രവചിച്ച മൂല്യം എല്ലാ ഡാറ്റാ പോയിന്റുകൾക്കും മീതെയുള്ള ശരാശരി മൂല്യം y ബാർ സം സ്ക്വയർ ചെയ്യുന്നു ഇപ്പോൾ SST എല്ലായ്പ്പോഴും എസ്എസ്ഇയേക്കാൾ മികച്ചതായിരിക്കുമെന്ന് നമ്മൾക്ക് കാണിക്കാൻ കഴിയും കാരണം രണ്ട് പാരാമീറ്ററുകൾ ഫിറ്റ് ചെയ്താണ് എസ്എസ്ഇ നേടിയത് കാരണം നിങ്ങൾക്ക് എറർ കുറയ്ക്കാൻ കഴിയും ഒരുപക്ഷെ നാമമാത്രമായി പക്ഷേ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എററുകൾ കുറയ്ക്കാൻ കഴിയും SS ടോട്ടൽ എല്ലായ്പ്പോഴും SSE യെക്കാൾ വലുതായിരിക്കും അതിനാൽ ഈ വ്യത്യാസം SSR പോസിറ്റീവ് ആയിരിക്കും ഇവയെല്ലാം പോസിറ്റീവ് അളവുകൾ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥിരമായ മോഡൽ അനുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SS ടോട്ടൽ t യുടെ ഗുണമായി വേർതിരിക്കാം നമുക്ക് SSE യെ ലീനിയർ മോഡലിന്റെ t യുടെ ഗുണമായി വ്യാഖ്യാനിക്കാം അതിനാൽ ഒരു പരിശോധന നടത്താൻ നമുക്ക് ഇത് ഉപയോഗിക്കാം SST SSE ആയ സ്ലോപ്പ് പാരാമീറ്റർ ഉൾപ്പെടുത്തി കുറയ്ക്കുന്നത് പ്രാധാന്യമുള്ളതാണെങ്കിൽ ഈ അധിക പാരാമീറ്റർ ഉൾപ്പെടുത്തുന്നത് മൂല്യവത്താണെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു അല്ലാത്തപക്ഷം ഇല്ലെന്ന് അക്ഷരാർത്ഥത്തിൽ അവബോധപൂർവ്വം നമുക്ക് പറയാൻ കഴിയും ഇത് ഹൈപ്പോതെസിസ് ടെസ്റ്റ് ഫോർമൽ ഹൈപ്പോതെസിസ് ടെസ്റ്റാക്കി മാറ്റാം അതിനെയാണ് എഫ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് അതിനാൽ SS ടോട്ടൽ എന്നത് റെഡ്യൂസ്ഡ് മോഡൽ എത്ര നല്ലതാണെന്നതിന്റെ അളവുകോലാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു സ്ഥിരമായ മോഡലിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ സ്ലോപ്പ് പാരാമീറ്റർ ഉൾപ്പെടുത്തിയാൽ SSE ലീനിയർ മോഡലിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നൾ ഹൈപോതെസിസ് റെഡ്യൂസ്ഡ് മോഡൽ സ്വീകരിക്കണമോ അതോ സ്ലോപ്പ് പരാമീറ്റർ ഉൾപ്പെടുന്ന ഈ ആൾട്ടർനേറ്റീവിന്ന് അനുകൂലമായി നിരസിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹൈപ്പോതെസിസ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള എഫ് സ്റ്റാറ്റിസ്റ്റിക് റെഡ്യൂസ്ഡ് മോഡലിന് അനുയോജ്യമായ ഗുണത്തിന്റെ വ്യത്യാസം കണക്കാക്കുക എന്നതാണ് അത് എല്ലായ്പ്പോഴും ഉയർന്നതാണ് ഇതര സിദ്ധാന്തത്തിന് അനുയോജ്യമായ എസ്എസ്ഇയുടെ ഗുണം അതിനാൽ ഇത് റെഡ്യൂസ്ഡ് ഓർഡർ മോഡൽ ഫിറ്റിനുള്ള സം സ്ക്വയർ എററുകകളെ പ്രതിനിധീകരിക്കുന്നു ഇതര ഹൈപ്പോതെസിസ് ഫിറ്റിനുള്ള ഫിറ്റിന്റെ ഗുണത്തെ എസ്എസ്ഇ പ്രതിനിധീകരിക്കുന്നു ഈ വ്യത്യാസം ഞാൻ പറഞ്ഞതു പോലെ വലുതാണെങ്കിൽ ശനൾ ഹൈപോതെസിസിനേക്കാൾ ആൾട്ടർനേറ്റീവ് ഹൈപോതെസിസിലൂടെ പോകുന്നത് മൂല്യവത്താണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ഇത് തമ്മിലുള്ള വ്യത്യാസമായ SSR വേണ്ടത്ര വലുതായിരിക്കണം ഡിനോമിനേറ്റർ പ്രതിനിധീകരിക്കുന്ന നോർമലൈസേഷൻ എസ്എസ്ഇ ശതമാനത്തിന്റെ ചില അർത്ഥത്തിൽ ആൾട്ടർനേറ്റീവ് ഹൈപോതെസിന് ലഭിച്ച പിശകാണ് മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത പാരാമീറ്ററുകൾ കാരണം SST എന്ന ന്യൂമറേറ്ററിന് n 1 ഡിഗ്രി ഫ്രീഡമുണ്ടെന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഒരു പാരാമീറ്റർ മാത്രമേ ഫിറ്റ് ചെയ്യുന്നുള്ളൂ ഇതിന് n 2 ഫ്രീഡമുമുണ്ട് കാരണം നിങ്ങൾ 2 പാരാമീറ്ററുകൾ ഫിറ്റ് ചെയ്യുന്നു അതിനാൽ വ്യത്യാസം യഥാർത്ഥത്തിൽ ഇത് ഒരു അധിക പാരാമീറ്റർ മാത്രമാണെന്നാണ് അതിനാൽ SSR എന്ന ന്യൂമറേറ്ററിന് n 1 n 2 എന്ന ഒരു ഡിഗ്രി മാത്രമേ ഫ്രീഡമുള്ളൂ അതേസമയം ഡിനോമിനേറ്റർ SSE ന് 2 പാരാമീറ്ററുകൾ ഉള്ളതിനാൽ n 2 ഡിഗ്രി ഫ്രീഡമുണ്ട് അതിനാൽ നമ്മൾ SSE യെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n 2 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംലെ ശരാശരി സം സ്ക്വയർ എററുകൾ അതാണ് നമ്മൾ പറയുന്നത് അതാണ് നിങ്ങളുടെ നോർമലൈസേഷൻ എസ്എസ്ആർ ഈ നോർമലൈസ് ചെയ്തത് ഈ അളവ് കൊണ്ട് ഹരിച്ചാൽ നമ്മൾക്ക് ഇത് ഒരു എഫ് സ്റ്റാറ്റിസ്റ്റിക് ആണെന്ന് ഔദ്യോഗികമായി കാണിക്കാം കാരണം ഇത് രണ്ട് സ്ക്വയർ അളവുകളുടെ അനുപാതമാണ് ഓരോ സ്ക്വയർ അളവുകളും ഒരു χ സ്ക്വയർ വേരിയബിളാണ് കാരണം ഇത് ഒരു നോർമൽ വേരിയബിളിന്റെ ഒരു സ്ക്വയർ ആണ് അതിനാൽ ഇത് രണ്ട് χ സ്ക്വയറിന്റെ അനുപാതമാണ് രണ്ട് χ സ്ക്വയർലുള്ള വേരിയബിളിന്റെ അനുപാതം പരിശോധിക്കുന്നത് അനുമാനത്തിൽ നമ്മൾ കണ്ടത് ഉചിതമായ ഫ്രീഡമുള്ള ഒരു എഫ് ഡിസ്ട്രിബ്യൂഷനാണ് ഫ്രീഡത്തിന്റെ ന്യൂമറേറ്റർ ഡിഗ്രികൾ 1 ആണ് ഫ്രീഡത്തിന്റെ ഡിനോമിനേറ്റർ ഡിഗ്രികൾ n 2 ആണ് അതിനാൽ ഈ സ്റ്റാറ്റിസ്റ്റിക് F 0 ഉപയോഗിച്ച് ഇപ്പോൾ ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റ് നടത്തണമെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നുള്ള നിർണായക മൂല്യവുമായി നമ്മൾ F 0 നെ താരതമ്യം ചെയ്യുന്നു എഫ് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവ് അളവാണ് അതിനാൽ സിഗ്നിഫിക്കൻസ് ലെവൽ 5 ശതമാനം ആയി തിരഞ്ഞെടുത്താൽ നമ്മൾ ഒരു വൺ സൈഡ് ടെസ്റ്റ് നടത്തുന്നു തുടർന്ന് എഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് 1 n 2 ഡിഗ്രി ഫ്രീഡവും 5 ശതമാനം സിഗ്നിഫിക്കൻസ് ലെവലും ഉള്ള ഉയർന്ന നിർണായക മൂല്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ഉയർന്ന നിർണായക മൂല്യങ്ങളുടെ സാധ്യത 5 ശതമാനം 0 അതിനാൽ എഫ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പരിധി ലഭിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് പരിധി കവിയുന്നുവെങ്കിൽ നമ്മൾ നൾ ഹൈപോതെസിസ് നിരസിക്കുകയും റെഡ്യൂസ്ഡ് മോഡലിനേക്കാൾ ഫുൾ മോഡൽ മികച്ചതാണെന്ന് പറയുകയും ചെയ്യും നമ്മൾ ഫുൾ മോഡൽ സ്വീകരിക്കും അല്ലെങ്കിൽ നമ്മൾ നിരസിക്കുന്നു ഫുൾ മോഡലിന് അനുകൂലമായി റെഡ്യൂസ്ഡ് മോഡലിലേക്ക് മോഡലിൽ ഉൾപ്പെടുത്തുന്നത് മൂല്യമുള്ള സ്ലോപ്പ് പാരാമീറ്റർ നമുക്ക് ഒരു മികച്ച t ലഭിക്കും അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിഗമനം ചെയ്യുന്നത് അതിനാൽ നമ്മൾ ഫിറ്റ് ചെയ്ത ലീനിയർ മോഡൽ നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ നിരവധി മാർഗങ്ങളുണ്ട് r സ്ക്വയർ മൂല്യം ഉപയോഗിക്കാമായിരുന്നു അത് 1 ന് അടുത്താണെങ്കിൽ അത് ലീനിയർ മോഡൽ നല്ലതായിരിക്കുമെന്നതിന്റെ ഒരു സൂചകമാണ് ഉപസംഹരിക്കാൻ ഞാൻ വിളിക്കുന്നത് പര്യാപ്തമല്ല പക്ഷേ ഇത് ഒരു നല്ല സൂചകമാണ് β1 പ്രാധാന്യമുള്ളതല്ലെന്ന് നമ്മൾ നിഗമനം ചെയ്താൽ β1 ന്റെ β പ്രാധാന്യത്തിനായുള്ള പരിശോധനയും നടത്താം അല്ലെങ്കിൽ നമുക്ക് ഒരു എഫ് ടെസ്റ്റ് നടത്തി സ്ലോപ്പ് പാരാമീറ്റർ ഉൾപ്പെടുത്തുന്നത് പ്രധാനമാണോ എന്ന് നിഗമനം ചെയ്യാം അതിനാൽ ലീനിയർ മോഡൽ സ്വീകാര്യമാണോ അല്ലയോ അല്ലെങ്കിൽ ടി നല്ലതാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന വിവിധ മാർഗങ്ങളാണിത് നമ്മൾക്ക് ഇത് നിർത്താൻ കഴിയില്ല നമ്മൾ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് പക്ഷേ നമ്മൾ ശരിയായ പാതയിലാണ് എന്നതിന്റെ പ്രാരംഭ സൂചകങ്ങളിൽ ഇവയെങ്കിലും നല്ലതാണ് അതിനാൽ നമുക്ക് പതിനാല് ഡാറ്റാ പോയിന്റുകളുള്ള ഒരു പ്രശ്നത്തിന്റെ അറ്റകുറ്റപ്പണിയുടെയോ സേവനത്തിന്റെയോ ഉദാഹരണത്തിലേക്ക് ഇത് പ്രയോഗിക്കാം കൂടാതെ എടുത്ത സമയവും വ്യത്യസ്ത സെയിൽസ്മാൻ റിപ്പയർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണവും നൽകിയിരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ R ഉപയോഗിച്ചാണ് നമ്മൾ ഡാറ്റ ഫിറ്റ് ചെയ്തതെന്ന് നമ്മൾ കാണിച്ചുതന്ന ഈ പതിനാല് പോയിന്റുകൾ ഉണ്ട് ഓർക്കുക ഒരു ലീനിയർ മോഡൽ ഫിറ്റ് ചെയ്യുന്നതിന്ന് നമ്മൾ വിളിക്കേണ്ട ഫംഗ്ഷനാണ് l n ഇവിടെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ മിനിറ്റുകൾ പ്രവചിക്കുന്നു കൂടാതെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകൾ യൂണിറ്റുകളാണ് ഒരിക്കൽ നമ്മൾ ഇത് R ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്താൽ അത് ഈ ഔട്ട്പുട്ടുകളെല്ലാം നൽകുന്നു അത് നിങ്ങൾക്ക് ഗുണകവും നൽകുന്നു ഇന്റർസെപ്റ്റ് പദം 4 16 ആയി മാറുന്നു സ്ലോപ്പ് പാരാമീറ്റർ 15 501 ആയി മാറുന്നു പക്ഷേ ഇന്റർസെപ്റ്റിന്റെ S β̂₀ ഈ പരാമീറ്ററിന്റെ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്റ്റിമേറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നും ഇത് നിങ്ങളോട് പറയുന്നു β1 ന്റെ ഈ എസ്റ്റിമേറ്റ് 0 501 505 ആയി മാറുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നും ഇത് നിങ്ങളോട് പറയുന്നു നമ്മൾ വിവരിച്ച ഫോർമുലകൾ ഉപയോഗിച്ച് ഡാറ്റയിൽ നിന്നുള്ള കണക്കുകൂട്ടലുകൾ ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഫിഡൻസ് ഇന്റെർവെല്ലുകൾ നിർമ്മിക്കാമെന്നും ഇത് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് കണ്ടെത്താമെന്നും അല്ലെങ്കിൽ R തന്നെ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുവെന്നും നിങ്ങൾ അനുമാന പരിശോധന നടത്തുകയാണെങ്കിൽ β̂₀ സിഗ്നിഫിക്കന്റ് ആണോ അതോ β̂1 ആണോ എന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രാധാന്യമർഹിക്കുന്നതും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട p മൂല്യം എന്ന് വിളിക്കപ്പെടുന്നതും സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന മൂല്യം ലഭിക്കുകയാണെങ്കിൽ t മൂല്യങ്ങൾ മുമ്പ് വീണ്ടും വിവരിച്ച സ്റ്റാറ്റിസ്റ്റിക്കിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്കായി β̂₀ എന്നതിനായുള്ള സ്റ്റാറ്റിസ്റ്റിക്കുകളും β1 0 ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കുകളും കണക്കാക്കി അത് ഈ സ്റ്റാറ്റിസ്റ്റിക്ക മൂല്യം കണക്കാക്കി അത് ഡിസ്ട്രിബൂഷൻ സമയത്ത് സിഗ്നിഫിക്കന്റ് വാല്യൂവുമായി താരതമ്യപ്പെടുത്തി ഉചിതമായ അളവിലുള്ള ഫ്രീഡത്തോടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു മുകളിലെ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റികൾ 0 239 അതായത് 0 01 അല്ലെങ്കിൽ 0 05 എന്നിവയിൽ കൂടുതലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വളരെ ഉയർന്ന മൂല്യം ലഭിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിരസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് മറുവശത്ത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മൂല്യം ലഭിക്കുകയാണെങ്കിൽ അത് നിരസിക്കരുത് നിങ്ങൾ നൾ ഹൈപോതെസിസ് നിരസിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് കൂടുതൽ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് നൾ ഹൈപോതെസിസ് നിരസിക്കാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ അത് പറയുന്നത് നിങ്ങൾ സിഗ്നിഫിക്കൻസ് ലെവൽ 0 001 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തം നിരസിക്കുകയില്ല 05 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തം നിരസിക്കില്ല നിങ്ങളുടെ പ്രാധാന്യത്തിന്റെ തലമായി 0 01 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തം നിരസിക്കുകയില്ല അതിനാൽ നക്ഷത്രം സൂചിപ്പിക്കുന്നത് അതാണ് ഏത് തലത്തിലാണ് നിങ്ങൾ അതിനെ നിരാകരിക്കുക അതേസമയം β1 ന്റെ കാര്യത്തിൽ നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തം നിരസിക്കും അതായത് നിങ്ങൾ വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള മൂല്യം 0 001 അല്ലെങ്കിൽ കുറഞ്ഞ മൂല്യം തിരഞ്ഞെടുത്താലും β1 പ്രാധാന്യമർഹിക്കുന്നതായി നിങ്ങൾ നിഗമനം ചെയ്യും വാസ്തവത്തിൽ 10 പവർ 13 നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തത്തെ നിരാകരിക്കും ടൈപ്പ് വൺ എറർ പ്രോബബിലിറ്റി വളരെ കുറവാണ് അതിനാൽ ഈ മൂല്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാം β̂₀ സിഗ്നിഫിക്കന്റ് അല്ല എന്ന് അതായത് β̂₀ 0 എന്നത് ന്യായമായ ഒരു സിദ്ധാന്തമാണ് β̂1 0 അല്ല എന്നത് ന്യായമായ ഒരു സിദ്ധാന്തമാണ് ഈ ഡാറ്റയെ ഇത് അർത്ഥമാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം യൂണിറ്റുകളൊന്നും നന്നാക്കിയില്ലെങ്കിൽ ഈ സെയിൽസ് റിപ്പയർ വ്യക്തി സമയമെടുക്കരുതെന്ന് നമ്മൾക്കറിയാം ഇതിനർത്ഥം നിങ്ങൾ സേവനത്തിനായി സമയമൊന്നും എടുത്തിട്ടില്ലാത്തതിനാൽ അതെ നിങ്ങൾ യൂണിറ്റുകളൊന്നും നന്നാക്കാത്തതിനാൽ അതിനാൽ ഈ ലൈൻ സാങ്കേതികമായി 0 0 എന്നിവയിലൂടെ കടന്നുപോകണം അതാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ശരിക്കും മുന്നോട്ട് പോയി ഒരു ഇന്റർസെപ്റ്റ് പദം ഫിറ്റ് ചെയ്തു എന്നാൽ ഹൈപോതെസിസ് ടെസ്റ്റുകൾ പറയുന്നത് β0 ഇന്റർസെപ്റ്റ് 0 ആണെന്ന് നിങ്ങൾക്ക് സുരക്ഷിതമായി അനുമാനിക്കാമെന്നും അത് ഭൌതികപരമായി അര്ഥമുള്ളതുമാകുന്നു കൂടാതെ ഡാറ്റയ്ക്ക് മതിയായ β1 മാത്രമേ നമ്മൾക്ക് ഫിറ്റ് ചെയ്യാനാകൂ അതിനാൽ ഒരുപക്ഷേ നിങ്ങൾ ഈ ലീനിയർ t β0 ഉപയോഗിച്ച് വീണ്ടും ചെയ്യണം β1 ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു പരിഹാരം ലഭിക്കും നിങ്ങൾക്ക് വീണ്ടും പരീക്ഷിക്കാം അതിനാൽ എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നതിന് സ്ലോപ്പ് പരാമീറ്ററുകൾ പ്രാധാന്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഉയർന്നതാണ് ഈ p മൂല്യം വളരെ കുറവാണ് അതിനർത്ഥം നിങ്ങൾ β1 ഉൾപ്പെടെയുള്ള β1 ഉപയോഗിക്കണം എന്നതിന്റെ അർത്ഥം റെഡ്യൂസ്ഡ് മോഡൽ മതിയെന്ന നൾ ഹൈപോതെസിസ് നിങ്ങൾ നിരസിക്കും β1 ഉൾപ്പെടെ ഉപയോഗിക്കണമെന്ന് സൂചിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ മോഡലിംഗിൽ β1 ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് t മികച്ചതാക്കും അതിനാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉയർന്ന മൂല്യം ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് നൾ ഹൈപോതെസിനെ നിരസിക്കും അല്ലെങ്കിൽ p യുടെ കുറഞ്ഞ മൂല്യം സൂചിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ സിഗ്നിഫിക്കൻസ് ലെവലിൽ പോലും നിങ്ങൾ നൾ ഹൈപോതെസിസ് നിരസിക്കുമെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് β0 β1 എന്നിവയ്ക്കുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ നിർമ്മിക്കാനും കഴിയും നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇത് ഏകദേശം കണക്കാക്കിയതാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എററിന്റെ 2 18 മടങ്ങ് അതാണ് 4 1 അല്ലെങ്കിൽ 2 18 മടങ്ങ് 3 35 അത് കോൺഫിഡൻസ് ഇന്റർവെൽ 3 148 മുതൽ 11 472 വരെ നൽകുന്നു അതായത് 95 ശതമാനം കോൺഫിഡൻസോടെ ഈ ഇന്റെർവലിൽ യഥാർത്ഥ β0 ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാം അതുപോലെ നമുക്ക് β1 ന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ 90 ശതമാനം കോൺഫിഡൻസ് ഇന്റർവെൽ നിർമ്മിക്കാം അത് 15 അല്ലെങ്കിൽ ഏകദേശം രണ്ട് തവണ 0 5 ആണ് അതായത് 14 ഉം 16 6 ഉം ആണ് ഇപ്പോൾ വ്യക്തമായും β0 നുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ പൂജ്യം ഉൾക്കൊള്ളുന്നു അതിനാൽ β0 0 എന്ന നൾ ഹൈപ്പോഥെസിസ് നിരസിക്കാൻ പാടില്ല β0 ഒരുപക്ഷെ 0 ആണെന്ന് നമ്മൾ അംഗീകരിക്കണം എന്നാൽ β1 ന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ 0 ഉൾപ്പെടുന്നില്ല അതിനാൽ β1 ൽ 0 ഉൾപ്പെടുന്നു എന്ന നൾ ഹൈപോതെസിസ് നമുക്ക് നിരസിക്കാം മോഡലിൽ നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന പരാമീറ്ററാണ് സ്ലോപ്പ് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത് നമ്മൾ അത് മൾട്ടി ലീനിയർ കേസിലേക്ക് വിപുലീകരിക്കും മറ്റ് അനുമാനങ്ങൾ മോശം ഡാറ്റയുടെ സ്വാധീനം എന്നിവയും ഇനിപ്പറയുന്ന ലെക്ച്ചറിൽ നമ്മൾ നോക്കും അതിനാൽ അടുത്ത ലെക്ച്ചറിൽ കാണാം